മുൻ പ്രഭാഷണത്തിൽ മെഷീൻ ലേണിംഗിന്റെ ഒരു അവലോകനം ഞങ്ങൾക്ക് ലഭിച്ചു കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് മെഷീൻ ലേണിംഗ് എന്നീ മേഖലകളുമായി എന്ത് ഡാറ്റ സയൻസസ് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഞങ്ങൾ കണ്ടു അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പോകുന്നു മെഷീൻ ലേണിംഗിനുള്ള വ്യത്യസ്ത സാങ്കേതികതകൾ മെഷീൻ ലേണിംഗിന്റെ വിശാലമായ വർഗ്ഗീകരണങ്ങൾ എന്തൊക്കെയാണ് മുമ്പത്തെതിൽ ഞങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് IIoT സാഹചര്യങ്ങൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം വ്യാവസായിക സാഹചര്യങ്ങളിലെ ചില യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി IIoT മെഷീൻ ലേണിംഗ് എന്നിവയുടെ ചില ഉദാഹരണങ്ങളും ഞങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ട് അതിനാൽ ഇതിൽ ഞങ്ങൾ കൂടുതൽ തുടരാൻ പോകുന്നു ഡീപ് ലേണിംഗ് എന്നറിയപ്പെടുന്ന ഇന്നത്തെക്കാലത്ത് വളരെ പ്രചാരമുള്ള ഒന്നിനോട് മെഷീൻ ലേണിംഗ് എങ്ങനെ താരതമ്യം ചെയ്യുന്നുവെന്ന് മനസിലാക്കിക്കൊണ്ട് ആദ്യം ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നു അതിനാൽ മെഷീൻ ലേണിംഗ് ആഴത്തിലുള്ള പഠനവുമായി എങ്ങനെ താരതമ്യം ചെയ്യുന്നു എങ്ങനെ മെഷീൻ ലേണിംഗ് ആഴത്തിലുള്ള പഠനം അവർ കൃത്രിമ ബുദ്ധിയുമായി താരതമ്യം ചെയ്തു അതിനാൽ ഇതാണ് മൊത്തത്തിലുള്ള താരതമ്യം അതിനാൽ ഇത് AI നും മെഷീൻ ലേണിംഗിനും ആഴത്തിലുള്ള പഠനത്തിനും എതിരാണ് അതിനാൽ സമഗ്രമായി ഇത് പോലെയാണ് ആഴത്തിലുള്ള പഠനം നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിന്റെ ഒരു ഉപവിഭാഗമാണ് മെഷീൻ ലേണിംഗ് തന്നെ കൃത്രിമ ബുദ്ധിയുടെ ഒരു ഉപവിഭാഗമാണ് അതിനാൽ ഒടുവിൽ നമുക്കുള്ളത് ഇതുപോലുള്ളതാണ് ആഴത്തിലുള്ള പഠനത്തെ മെഷീൻ ലേണിംഗിന്റെ ഭാഗമാക്കുന്നതിനും മെഷീൻ ലേണിംഗ് വീണ്ടും കൃത്രിമബുദ്ധിയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കാനാകും അതിനാൽ കൃത്രിമബുദ്ധി ഒരു മുൻ പ്രഭാഷണത്തിൽ ഞങ്ങൾ അതിലൂടെ കടന്നുപോയി അതിനാൽ കൃത്രിമ ബുദ്ധി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇന്റലിജന്റ് മെഷീനുകൾ അത് വ്യക്തമായി പ്രോഗ്രാം ചെയ്യാതെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കും മറുവശത്ത് മെഷീൻ ലേണിംഗ് ചില ഒബ്ജക്റ്റ് സവിശേഷതകളിൽ നിന്ന് യാന്ത്രികമായി പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ സവിശേഷതകൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ആഴത്തിലുള്ള പഠനത്തിൽ പരീക്ഷാ ഉദാഹരണമായി ഇവിടെയാണ് നിങ്ങൾ സ്വമേധയാ തിരിച്ചറിഞ്ഞ സവിശേഷതകളുടെ സഹായം സ്വീകരിക്കാത്തത് കൂടാതെ സവിശേഷതകൾ സ്വയമേവ കണ്ടെത്താനാകും അതിനാൽ ഈ ആഴത്തിലുള്ള പഠനം മെഷീൻ ലേണിംഗ് കൃത്രിമ ബുദ്ധി എന്നിവ പരസ്പരം താരതമ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ് വീണ്ടും മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള പഠനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ആഴത്തിലുള്ള പഠനത്തെക്കുറിച്ചുള്ള സെമസ്റ്റർ നീണ്ട കോഴ്സുകൾ മെഷീൻ ലേണിംഗിനെക്കുറിച്ചുള്ള സെമസ്റ്റർ നീണ്ട കോഴ്സുകൾ കൃത്രിമബുദ്ധിയെക്കുറിച്ചുള്ള സെമസ്റ്റർ നീണ്ട കോഴ്സുകൾ എന്നിവ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ പ്രത്യേക കോഴ്സ് സ്കോപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെന്നതിന്റെ ഒരു അവലോകനം മാത്രമാണ് അതിനപ്പുറം അല്ല അതിനാൽ നിങ്ങളുടെ വ്യവസായങ്ങളിൽ നിങ്ങളുടെ IIoT നടപ്പാക്കൽ മെച്ചപ്പെടുത്തുന്നതിനായി വ്യത്യസ്ത AI ML അല്ലെങ്കിൽ DL ടെക്നിക്കുകൾ ആവശ്യമെങ്കിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സ്വയം ശക്തിയും അറിവും അനുഭവപ്പെടുന്നു അതിനാൽ ഇത് ചരിത്രം മാത്രമാണ് 1950 മുതൽ AI ജനപ്രിയമാണ് അത് ഇപ്പോഴും ജനപ്രിയമാണ് 1980 കൾ മുതൽ ML ജനപ്രിയമാണ് അത് ആഴത്തിലുള്ള പഠനമായി തുടരുന്നു കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 2006 2007 മുതൽ അങ്ങനെയാകാം എന്നാൽ ML അതിനാൽ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമോ AI അവിടെ ഉണ്ടായിരുന്നു ML അവിടെ ഉണ്ടായിരുന്നു എന്നാൽ സമീപകാലത്ത് മാത്രമാണ് വിവിധ കാരണങ്ങളാൽ ഇവ കൂടുതൽ പ്രചാരം നേടിയത് ആവിർഭാവം കാരണം ഉദാഹരണത്തിന് IoT യുടെ പ്രശസ്തി സ്വയംഭരണ സംവിധാനങ്ങളുടെ ജനപ്രീതി കാരണം സ്വയംഭരണ കാറുകൾ സ്വയം ഡ്രൈവിംഗ് കാറുകൾ അടിസ്ഥാനപരമായി ഈ സാങ്കേതികവിദ്യകളായ AI ML DL കൂടാതെ വ്യത്യസ്തമായ IIoT സാങ്കേതികവിദ്യകൾ എല്ലാം ഉപയോഗിക്കുന്നു അവിടെയാണ് ഈ AI ML അല്ലെങ്കിൽ DL കൂടുതൽ ജനകീയമാകുന്നത് അതിനാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 ഉദാഹരണങ്ങളാണ് ഇവ നിലവിലെ ലോകത്ത് ഇനിയും നിരവധി ഉദാഹരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾ മുമ്പ് അറിയപ്പെട്ടിരുന്ന സാങ്കേതികവിദ്യകളായ AI ML എന്നിങ്ങനെ തിരിച്ചുവരേണ്ടിവരും അതിനാൽ ഇവ പുതിയതല്ല ML അവിടെയുണ്ട് AI കൂടുതൽ കാലം അവിടെയുണ്ട് എന്നാൽ സമീപകാലത്ത് മാത്രം പുതിയ ആപ്ലിക്കേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഈ സാങ്കേതികവിദ്യകൾക്ക് ആകർഷകമായ പുതുമ ലഭിക്കുകയും വ്യവസായങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ മെഷീൻ ലേണിംഗിന്റെ പ്രയോജനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി എന്നാൽ യന്ത്ര പഠനത്തിന് അതിന്റേതായ പരിമിതികളുണ്ട് ഉയർന്ന അളവിലുള്ള ഡാറ്റയ്ക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്രദമല്ല അതിനാൽ ക്ലസ്റ്ററിംഗ് ഞാൻ നിങ്ങൾക്ക് x ഉം y ഉം കാണിച്ചുതന്നത് നല്ലതാണ് എന്നാൽ നിങ്ങൾക്ക് അളവുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെങ്കിൽ മെഷീൻ ലേണിംഗ് ക്രമേണ ഉപയോഗപ്രദമാകില്ല മെഷീൻ ലേണിംഗ് ഒരു തരം മെഷീൻ ലേണിംഗിൽ സവിശേഷതകൾ വ്യക്തമായി പരാമർശിക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ ആഴത്തിലുള്ള പഠനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ചെയ്യേണ്ടതില്ലാത്ത ഒരു പുതിയ സാങ്കേതികതയാണിത് ഇത് അടിസ്ഥാനപരമായി ഒരു പുതിയ പഠന സാങ്കേതികതയാണ് ആഴത്തിലുള്ള പഠന സാങ്കേതികതയാണ് ഇത് വീണ്ടും മെഷീൻ ലേണിംഗിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷേ ഇത് മെഷീൻ ലേണിംഗിന്റെ ചില പോരായ്മകളെ മറികടക്കാൻ ശ്രമിക്കുന്നു പ്രത്യേകിച്ചും DL ന് ഉയർന്ന അളവിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യാൻ കഴിയും അവിടെയാണ് DL ന്റെ പ്രയോജനം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് കൂടാതെ ഈ സവിശേഷതകളുടെ എക്സ്ട്രാക്ഷൻ എന്നിവയും ഡിഎല്ലിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടതില്ല അതിനാൽ അടിസ്ഥാനപരമായി ഈ ML DL എന്നിവ ഇങ്ങനെയാണ് ഡാറ്റയുടെ അളവുമായി ബന്ധപ്പെട്ട് അവർ പരസ്പരം താരതമ്യം ചെയ്തു അതിനാൽ ഡാറ്റയുടെ അളവ് എന്നിവ വർദ്ധിക്കുന്നതിനൊപ്പം ML DL എന്നിവ നിങ്ങൾ കാണുകയാണെങ്കിൽ ഡിഎൽ ക്രമേണ കൂടുതൽ കൂടുതൽ ജനപ്രിയമാവുകയും ഉപയോഗപ്രദമാകുകയും പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അതേസമയം എംഎല്ലിന്റെ പ്രകടനം ക്രമേണ സ്തംഭനാവസ്ഥയിലേക്ക് വരും അതിനാൽ ML ൽ ഫീച്ചർ ഐഡന്റിഫിക്കേഷനും ആവശ്യമാണ് എന്നതാണ് മറ്റ് പരിമിതി എന്നാൽ ഇത് DL ൽ വ്യക്തമായി ആവശ്യമില്ല അതിനാൽ ആഴത്തിലുള്ള പഠനം ഇത് ശരിയായ സവിശേഷതകൾ സ്വന്തമായി പഠിക്കാൻ കഴിവുള്ള മെഷീൻ ലേണിംഗിന്റെ ഒരു ഉപവിഭാഗമാണ് സ്വന്തമായി സവിശേഷതകൾ പഠിക്കാൻ ഇതിന് കഴിയും അടിസ്ഥാനപരമായി ഇത് നമ്മുടെ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ അനുകരിക്കുന്നു അതിനാൽ നിങ്ങൾ തലച്ചോറിന്റെ ന്യൂറോൺ ന്യൂറൽ ഘടന നോക്കുകയാണെങ്കിൽ അത് വളരെ സങ്കീർണമായ ഒരു ന്യൂറൽ ഘടനയാണ് അതിനാൽ ആ നാഡീ ഘടനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വ്യത്യസ്ത പാളികൾക്കു കീഴിലുള്ള ആഴത്തിലുള്ള ന്യൂറൽ ഘടന മുതലായവ തലച്ചോർ വളരെ എളുപ്പമല്ല എന്നത് മനസ്സിലാക്കുന്നതിൽ വളരെ വ്യത്യസ്തമാണ് അതിനാൽ ഇത് പ്രചോദിതമാണ് പക്ഷേ കൃത്യമായി പിന്തുടരുന്ന മസ്തിഷ്ക അധിഷ്ഠിത ന്യൂറൽ ഘടനയല്ല ഇത് പ്രചോദിതമാണ് പക്ഷേ ഇത് അൽപ്പം വ്യത്യസ്തമാണ് പക്ഷേ DL എന്താണ് ചെയ്യുന്നത് ഇത് സവിശേഷതകൾ സ്വന്തമായി പഠിക്കുന്നു ഈ DL ഡാറ്റ വോളിയം വർദ്ധിക്കുകയും ഡാറ്റയുടെ അളവും വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ കൃത്യതയുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട പ്രകടനം നൽകുന്നു അതിനാൽ ആഴത്തിലുള്ള പഠനത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു സാങ്കേതികത ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുക എന്നതാണ് നിങ്ങൾക്കറിയാമോ അതിനാൽ നിങ്ങളുടെ നെറ്റ്വർക്കിൽ ഇത് വീണ്ടും ന്യൂറൽ നെറ്റ്വർക്ക് ANN നെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷേ അത് വീണ്ടും ആഴമുള്ളതാണ് ഒരു ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെയാണ് ഉടൻ തന്നെ കാണിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം എന്നാൽ അതിനുമുമ്പ് ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്കിൽ സിഗ്നലുകൾ അടിസ്ഥാനപരമായി വ്യത്യസ്ത ന്യൂറോണുകൾക്കും കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കിലെ ന്യൂറോണുകളുടെ പാളികൾക്കുമിടയിൽ സഞ്ചരിക്കുന്നു ന്യൂറൽ നെറ്റ്വർക്കിൽ ഓരോ ന്യൂറോണിനും ചില വെയ്റ്റഡ് വാല്യു നൽകിയിരിക്കുന്നു ഒരു വെയ്റ്റഡ് ഹൈ വെയിറ്റഡ് ന്യൂറോൺ അടുത്ത ലെയറിൽ മറ്റുള്ളവയേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു കൂടാതെ അവസാന ലെയർ എല്ലാ ഭാര ഇൻപുട്ടുകളും സംയോജിപ്പിച്ച് ഫലമായി പുറത്തുവരുന്നു ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിനാൽ ആഴത്തിലുള്ള ന്യൂറൽ ശൃംഖലയായ ഈ DNN ആണെന്ന് ഡയഗ്രമാറ്റിക്കലായി ഞാൻ ഇവിടെ കാണിച്ചുതരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻപുട്ട് ലെയറും നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ലെയറും ഉണ്ട് അതിനാൽ ഇൻപുട്ട് ലെയർ അടിസ്ഥാനപരമായി ഇൻപുട്ടുകൾ എടുക്കുന്നു ഈ ഒപ്റ്റിമൈസേഷൻ പ്രക്രിയയിലൂടെ ഔട്ട്പുട്ട് അടിസ്ഥാനപരമായി ഔട്ട്പുട്ട് ലെയറിൽ നിന്ന് കടന്നുപോകുന്നു ഔട്ട്പുട്ട് ലെയറിൽ നിന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ലഭിക്കും ഇപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന പാളികൾക്കെല്ലാം ഇടയിലാണ് ഈ കണക്കുകൂട്ടലുകൾ നടത്തുന്ന ബന്ധങ്ങൾ സംയോജിപ്പിക്കുന്നതായി നിങ്ങൾക്കറിയാവുന്ന പലതും മറഞ്ഞിരിക്കുന്ന പാളികളാണ് നിങ്ങൾക്ക് ഈ മറഞ്ഞിരിക്കുന്ന പാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നിങ്ങൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്തോറും കൂടുതൽ കൂടുതൽ കണക്കുകൂട്ടലുകൾ ഉണ്ടാകും പക്ഷേ ഇത് നിങ്ങൾക്ക് കൂടുതൽ കൃത്യത നൽകാൻ പോകുന്നു പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും അല്ല പക്ഷേ മിക്ക കേസുകളിലും ഇത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കൃത്യത നൽകും അതിനാൽ ആഴത്തിൽ അടിസ്ഥാനപരമായി മറഞ്ഞിരിക്കുന്ന പാളികളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ പാളികളുണ്ടെങ്കിൽ ന്യൂറോണുകളുടെ ആഴത്തിലുള്ള ഘടന നിങ്ങൾക്ക് ഉണ്ടാകും അതിനാൽ ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്കിന് 150 വരെ മറഞ്ഞിരിക്കുന്ന പാളികൾ ഉണ്ടാകാമെന്ന് പറയപ്പെടുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ 2 മറഞ്ഞിരിക്കുന്ന പാളികൾ മാത്രമേ കാണിക്കൂ എന്നാൽ ഒരു ഡിഎൻഎനിൽ 150 വരെ മറഞ്ഞിരിക്കുന്ന പാളികൾ നടപ്പിലാക്കാൻ കഴിയും അതിനാൽ ആഴത്തിലുള്ള പഠനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഒരു സാദൃശ്യം എടുക്കാം നമുക്ക് പറയാം ഇത് ഒരു ആപ്പിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനാൽ ആദ്യം നിങ്ങൾ ആകൃതി പരിശോധിക്കുക ആകൃതിയാണ് അഭികാമ്യമെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അതെ ആകൃതി ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം നിങ്ങൾ നിറം പരിശോധിക്കുക നിറം ശരിയാണെങ്കിൽ അതിന്റെ രുചി പരിശോധിക്കുക നിങ്ങൾ ആപ്പിളിൽ കടിക്കുക തുടർന്ന് നിങ്ങൾ അതിന്റെ രുചി പരിശോധിക്കുക രുചി ശരിയാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് ഒരു ആപ്പിൾ ആണെന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുന്നു ശരിയല്ലേ അതിനാൽ ആപ്പിളിന്റെ ആകൃതി നിറം രുചി എന്നിവ അടിസ്ഥാനമാക്കി നിങ്ങൾ ഈ സ്ഥിരീകരണമോ അംഗീകാരമോ ഉണ്ടാക്കുന്നു അത് അടിസ്ഥാനപരമായി കൂടുകൂട്ടിയ ശ്രേണി ആശയമാണ് അതിനാൽ ആഴത്തിലുള്ള പഠനവും കൂടുകൂട്ടിയ ശ്രേണിയുടെ ആശയം പിന്തുടരുന്നു അത് സങ്കീർണ്ണമായ ജോലികളെ ലളിതമായ ജോലികളാക്കി മാറ്റുന്നു അതിനാൽ ആഴത്തിലുള്ള പഠനം നന്നായി മനസ്സിലാക്കാൻ ഇത് ഒരു സാദൃശ്യം മാത്രമാണ് അതിനാൽ മെഷീൻ ലേണിംഗും ആഴത്തിലുള്ള പഠനവും തമ്മിലുള്ള വ്യത്യാസം സ്വന്തമായി സവിശേഷതകൾ എക്സ്ട്രാക്റ്റുചെയ്യുന്ന ഒരു എൻഡ് ടു എൻഡ് പഠനമാണ് ആഴത്തിലുള്ള പഠനം ഇതാണ് പ്രധാന കാര്യം സ്വന്തമായി സവിശേഷതകൾ വേർതിരിച്ചെടുക്കുക മറുവശത്ത് മെഷീൻ ലേണിംഗ് സവിശേഷതകൾ വ്യക്തമായി സ്വമേധയാ പരാമർശിക്കേണ്ടതാണ് ആഴത്തിലുള്ള പഠനത്തിൽ ഡാറ്റയുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് പ്രകടന നില പലപ്പോഴും മെച്ചപ്പെടുന്നു അതേസമയം മെഷീൻ ലേണിംഗിൽ ആഴം കുറഞ്ഞ പഠനം അടിസ്ഥാനപരമായി ഒത്തുചേരുന്നു അതിനാൽ ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ ഉണ്ട് ഞങ്ങൾക്ക് IIoT ഉണ്ട് ഞങ്ങൾക്ക് ആഴത്തിലുള്ള പഠനമുണ്ട് രണ്ടും വളരെ ശക്തമായ സാങ്കേതികവിദ്യകളാണ് വേഗത മെച്ചപ്പെടുത്തുന്നതിന് IIoT സഹായകരമാണ് അതേസമയം കൃത്യത മെച്ചപ്പെടുത്തുന്നതിന് ആഴത്തിലുള്ള പഠനം ഉപയോഗപ്രദമാണ് ഇപ്പോൾ നിങ്ങൾ അവയെ ഒരുമിച്ച് ചേർത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ഗുണന ഫലമാണ് അതിനാൽ ഈ ഗുണന പ്രഭാവം വളരെ ശക്തമായ ഒരു കാര്യമായി മാറുന്നു ഇത് ഫാക്ടറികളിലെ ഈ നിർമ്മാണ വ്യവസായങ്ങളെ അവരുടെ ഉൽപ്പന്ന ലൈനുകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ സഹായിക്കും ഉർജ്ജ ഉപഭോഗം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ഗതാഗത പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കും ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തിര സാഹചര്യങ്ങളിലോ സിസ്റ്റമുകൾ അടച്ചുപൂട്ടുന്നതിനോ ഇത് സഹായിക്കും അതിനാൽ IIoT ആഴത്തിലുള്ള പഠനം ഒരുമിച്ച് നേടാൻ കഴിയുന്ന നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഗുണിക്കുന്നു ഒരുമിച്ച് നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു സാങ്കേതികവിദ്യ ലഭിക്കും അതിനാൽ IIoT ൽ ആഴത്തിലുള്ള പഠനത്തിന്റെ പ്രയോജനത്തിനുള്ള കാരണം ഇതുപോലെയാണ് അടുത്ത കാലത്തായി ആഴത്തിലുള്ള പഠനം വളരെ പ്രയോജനപ്രദമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ സമീപകാലത്ത് മാത്രം ലേബൽ ചെയ്ത ഡാറ്റയുടെ അളവ് പലതവണ വർദ്ധിച്ചു എന്നതാണ് അതിനാൽ ഇത് വർദ്ധിക്കുകയും ലഭ്യവുമാണ് അതേസമയം സമീപകാലത്ത് ഉയർന്ന നിലവാരമുള്ള കണക്കുകൂട്ടൽ ശക്തിയും വളരെ ഉയർന്നതും അതേ സമയം വിലകുറഞ്ഞതുമായി മാറിയിരിക്കുന്നു അതിനാൽ ഉയർന്ന നിലവാരമുള്ള കമ്പ്യൂട്ടേഷണൽ പവർ വിലകുറഞ്ഞതാണ് എന്നാൽ കുറഞ്ഞ ചിലവിൽ ലഭ്യമാണ് അതോടൊപ്പം വലിയ അളവിലുള്ള ഡാറ്റയുടെ അളവും ആ ഡാറ്റയുടെ ലഭ്യത വർദ്ധിക്കുകയും ഇവ രണ്ടിന്റെയും ആവശ്യകതകൾ വർദ്ധിക്കുകയും ചെയ്തു തൽഫലമായി നമ്മുടെ ആവശ്യകതകൾ കാരണം ആഴത്തിലുള്ള പഠനത്തിന് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് ആളുകൾ ഒരുമിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതിനാൽ IIoT ലെ ആഴത്തിലുള്ള പഠനത്തിന്റെ നിർണായക ആവശ്യകതകൾ എന്തെന്നാൽ ഇന്നത്തെക്കാലത്ത് നമ്മൾ സംസാരിക്കുന്നത് നിർണായകമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ചാണ് വലിയ അളവിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നതും ഉയർന്ന കൃത്യത ആവശ്യകതകൾ ഉയർന്ന ഗുണനിലവാരവും കൈകാര്യം ചെയ്യുന്നതുമാണ് അതിനാൽ ആഴത്തിലുള്ള പഠനം അടിസ്ഥാനപരമായി ഉപഭോക്താക്കൾക്ക് ക്യാമറകൾ സെൻസറുകൾ മുതലായ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് തിരിച്ചറിയാനോ പ്രാപ്തമാക്കുന്ന മൂല്യങ്ങൾ നൽകുന്നു മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ പ്രവചനം അല്ലെങ്കിൽ അനുമാനവും സ്വയംഭരണ തീരുമാന നിയന്ത്രണവും അതിനാൽ വ്യത്യസ്ത ബിസിനസ്സ് വിഭാഗങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ആഴത്തിലുള്ള പഠനം നൽകുന്ന വ്യത്യസ്ത ആനുകൂല്യങ്ങൾ ഇവയാണ് അതിനാൽ ആഴത്തിലുള്ള പഠനം വ്യവസായങ്ങളിൽ ആഴത്തിലുള്ള പഠനത്തിന്റെ ഉപയോഗങ്ങളുണ്ട് ഞങ്ങൾക്ക് വളരെ പരിചിതമായ തോഷിബ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ് എഡ്ജ് എന്നാൽ ചില പ്രോസസ്സിംഗ് നടത്താൻ കഴിയുന്ന ചില ഗേറ്റ്വേ ഉപകരണം അതിനാൽ എഡ്ജ് നും ക്ലൌഡിനും ഇടയിൽ ഈ തോഷിബ സഹകരണത്തോടെ വിതരണം ചെയ്ത ആഴത്തിലുള്ള പഠന ചട്ടക്കൂട് കൊണ്ടുവന്നു അതിനാൽ ഞങ്ങൾ ഈ ചട്ടക്കൂട് ഉപയോഗിക്കുന്നു ഹൈ എൻഡ് പ്രോസസ്സിംഗിനായി ക്ലൌഡിൽ പഠന പ്രക്രിയ നടത്തുന്നു തത്സമയ പ്രോസസ്സിംഗിനായി എഡ്ജ്ലാണ് അനുമാന പ്രക്രിയ നടത്തുന്നത് അടിസ്ഥാന വിശകലനങ്ങൾ അരികിൽ ചെയ്യപ്പെടും അതേസമയം ആഴത്തിലുള്ളവയ്ക്ക് ധാരാളം കണക്കുകൂട്ടലും മറ്റും ആവശ്യമാണ് ഉയർന്ന പ്രോസസ്സിംഗ് ഉയർന്ന കണക്കുകൂട്ടൽ ക്ലൌഡിൽ ചെയ്യപ്പെടും തോഷിബ സാങ്കേതികവിദ്യ അർദ്ധചാലക ലൈനുകളിൽ കേടുപാടുകൾ കണ്ടെത്തുന്നതിനും വെയർഹൌസുകളിലെ തൊഴിലാളികളുടെ സ്വഭാവം വിവിധ ധരിക്കാവുന്ന ഉപകരണങ്ങളിലൂടെ പ്രവചിക്കുന്നതിനും സോളാർ പവർ സിസ്റ്റത്തിൽ വൈദ്യുതി ഉത്പാദനം പ്രവചിക്കുന്നതിനും അവർ ഡ്രോൺ നാവിഗേഷൻ നിയന്ത്രണ സംവിധാനം സ്വീകരിച്ചു അതിനാൽ ആഴത്തിലുള്ള പഠന ചട്ടക്കൂട് ഉപയോഗിക്കുന്ന H2O പ്ലാറ്റ്ഫോമാണ് മറ്റൊരു ഉദാഹരണം ഇന്റലിന്റെ മെഡിക്കൽ ഡൊമെയ്നിലെ വിവിധ പ്രശ്നങ്ങൾക്ക് അവർ ആഴത്തിലുള്ള പഠന വിദ്യകൾ ഉപയോഗിക്കുന്നു അതിനാൽ ആഴത്തിലുള്ള പഠനത്തിന്റെയും ജനപ്രീതി കണ്ടെത്തുന്നതിന്റെയും ചില ഉദാഹരണങ്ങളാണ് ഇവ സ്വയംഭരണാധികാരമുള്ള ഡ്രൈവിംഗ് വാഹനങ്ങളിൽ ആഴത്തിലുള്ള പഠനം വളരെ ജനപ്രിയമായി ഇക്കാലത്ത് IoT ക്കൊപ്പം ആഴത്തിലുള്ള പഠനം ഒരുമിച്ച് വളരെ ജനപ്രിയമായി അവ സ്വയം ഓടിക്കുന്ന കാറുകൾ യാഥാർത്ഥ്യമാക്കുന്നു അതിനാൽ ഇതുപോലെ മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയുടെ വ്യത്യസ്തമായ ഉപയോഗങ്ങളുണ്ട് അവ IoT IIoT എന്നിവയുമായി കൈകോർക്കുന്നു ഇത് അവരുടെ വ്യക്തിഗത ശക്തികൾക്കൊപ്പം അവയെ ഒന്നിച്ച് ശക്തരാക്കുന്നു അതിനാൽ ഇതുപയോഗിച്ച് ഞങ്ങൾ അവസാനിക്കുന്നു ഈ വ്യത്യസ്ത റഫറൻസുകളിലൂടെ കടന്നുപോകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മുമ്പുള്ള ഈ വ്യത്യസ്ത റഫറൻസുകൾ ഇതാ ഇതുപയോഗിച്ച് IIoT യ്ക്കുള്ള മെഷീൻ ലേണിംഗിന്റെയും ഡാറ്റാ സയൻസിന്റെയും ഒരു അവലോകനം ഞങ്ങൾ അവസാനിക്കുന്നു